നമുക്ക് സോർട്ട് ചെയ്യൂന്നതിനുള്ള ചർച്ച തുടരാം കൂടാതെ മറ്റൊരു ലളിതമായ സോർട്ടിംഗ് അൽഗോരിതം നോക്കാം നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ സോർട്ട് ചെയ്യൂന്നതിന് നമുക്ക് കൂടുതൽ പ്രചോദനങ്ങൾ ഉണ്ട് സെർച്ചിങ് മുതൽ തനിപ്പകർപ്പുകൾ നീക്കംചെയ്യൽ ഫ്രീക്വൻസി പട്ടികകൾ പോലുള്ള ചില സ്റ്റാറ്റിസ്റ്റിക്കൽ കണക്കുകൂട്ടലുകൾ മുതലായവ അവയിൽ ചിലതാണ് നമ്മുടെ കൈയിലുള്ള ഉദാഹരണം മാർക്കിന്റെ അവരോഹണ ക്രമത്തിൽ ഒരു കൂട്ടം പരീക്ഷാ പേപ്പറുകൾ സോർട് ചെയ്യാനുള്ള ഒരു മാർഗമാണ് ഒരു കൂട്ടം പരീക്ഷാ പേപ്പറുകൾ സോർട്ട് ചെയ്യൂന്നതിനുള്ള രണ്ടാമത്തെ തന്ത്രം ഇനിപ്പറയുന്നതായിരിക്കും നിങ്ങളുടെ പക്കലുള്ള ഏറ്റവും മുകളിലുള്ള പേപ്പർ എടുത്ത് ഒരു പുതിയ സ്റ്റാക്ക് സൃഷ്ടിക്കുക ഇനി രണ്ടാമത്തെ പേപ്പർ എടുത്ത് ആദ്യ പേപ്പറുമായി താരതമ്യം ചെയ്യുക മാർക്ക് വലുതാണെങ്കിൽ നിങ്ങൾ അത് ആദ്യം വെച്ച പേപ്പറിന് മുകളിൽ വയ്ക്കുക കാരണം നിങ്ങൾക്ക് അവരോഹണ ക്രമത്തിലാണ് അടുക്കേണ്ടത് മാർക്ക് ചെറുതാണെങ്കിൽ അത് ആദ്യം വെച്ച പേപ്പറിന് താഴെ വയ്ക്കുക ഈ സ്റ്റെപ്പിന് ശേഷം പുതിയ സ്റ്റാക്കിൽ അവരോഹണ ക്രമത്തിൽ അടുക്കിയ 2 പേപ്പറുകൾ ഉണ്ട് ഇനി മൂന്നാമത്തെ പേപ്പർ എടുക്കുക ആദ്യ രണ്ട് പേപ്പറുകളുമായി ഇത് എവിടെയാണ് യോജിക്കുന്നതെന്ന് നോക്കുക ഒന്നുകിൽ ഏറ്റവും താഴെ അല്ലെങ്കിൽ രണ്ടിനുമിടയിൽ അതുമല്ലെങ്കിൽ ഏറ്റവും മുകളിൽ അത് വെക്കുക ഈ രീതിയിൽ ഓരോ പോയിന്റിലും നിങ്ങൾ തരംതിരിക്കാത്ത സ്റ്റാക്കിലെ ഏറ്റവും മുകളിലുള്ള പേപ്പർ എടുക്കുകയും പുതിയതായി ഉണ്ടാക്കുന്ന സോർട്ട് ചെയ്ത സ്റ്റാക്കിൽ ശരിയായ സ്ഥാനത്ത് ചേർക്കുകയും ചെയ്യുന്നു ഇവിടെ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നോക്കാം നമുക്ക് സോർട്ട് ചെയ്തിട്ടില്ലാത്ത എലെമെന്റുകളുടെ ഒരു അറേ ഉണ്ടെന്ന് കരുതുക നമ്മൾ ആദ്യത്തെ ഘടകം 74 ൽ തുടങ്ങുന്നു നമ്മൾ 74 എടുക്കുന്നു ഒരു പുതിയ സ്റ്റാക്ക് ആരംഭിക്കുന്നു ഇനി നമുക്ക് അടുത്ത എലമെന്റ് എടുക്കണം ഇവിടെ അടുത്ത എലെമെന്റ് 32 ആണ് നമ്മൾ 32 എടുക്കുന്നു അത് ചെറുതായതിനാൽ അത് 74 ന്റെ ഇടതുവശത്തേക്ക് പോകണം അതിനാൽ നമ്മൾ 32 നെ 74 ന്റെ മുൻപിൽ വെക്കുന്നു ഇപ്പോൾ നമുക്ക് ഈ അറേ ലഭിക്കും വീണ്ടും നമ്മൾ അടുത്ത എലെമെന്റ് നോക്കുന്നു അതായത് 89 ഒരിക്കൽ കൂടി ഇത് രണ്ടിനെയും താരതമ്യം ചെയ്തുകൊണ്ട് ഉചിതമായ സ്ഥാനത്ത് വെക്കണം അതായത് 89 74 ന്റെ വലതുവശത്തേക്ക് പോകണം അതിനാൽ നമുക്ക് ഈ അറേ ലഭിക്കും ഇനി അറേയിലുള്ള അടുത്ത എലെമെന്റായ 55 എടുക്കുന്നു അത് രണ്ടാമത്തെ സ്റ്റാക്കിൽ എവിടെ വെക്കണമെന്ന് കണ്ടെത്തണം അതിനായി നമുക്ക് അവസാനത്തിൽ നിന്ന് ആരംഭിക്കാം അത് ഇവിടെയില്ലെന്ന് പറയാം ഇത് ഇതിന്റെ ഇടതുവശത്തേക്ക് പോകണം ഒടുവിൽ 55 വരുന്നത് 32 നും 74 നും ഇടയിലാണെന്ന് നമ്മൾ കണ്ടെത്തുന്നു ഇത് ഇൻസെർഷൻ സ്റ്റെപ്പാണ് ഇനി ഈ 21 എവിടെ പോകുന്നു ഇതിനെ ഇൻസെർട്ട് ചെയ്യാൻ ആദ്യം വരെ പോകണം കാരണം ഇത് ഇതുവരെ ഉള്ളതിനേക്കാൾ ചെറുതാണ് ഒടുവിൽ നമ്മൾ 64 എടുക്കുമ്പോൾ അത് 55 നും 74 നും ഇടയിൽ വരും ഓരോ സ്റെപ്പിലും നമ്മൾ അടുത്ത എലെമെന്റ് എടുക്കുന്നു മുമ്പത്തെ എല്ലാ എലെമെന്റ്കളും ഉപയോഗിച്ച് നമ്മൾ ഇതിനകം സൃഷ്ടിച്ച സോർട്ട് ചെയ്യപ്പെട്ട സ്റ്റാക്കിലേക്ക് ചേർക്കുന്നു ഒരു എലെമെന്റ് ഉപയോഗിച്ച് സോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു അറേ നിർമ്മിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുന്നു അതിനാൽ ഇതിനെ ഇൻസെർഷൻ സോർട്ട് എന്ന് വിളിക്കുന്നു കൂടാതെ സോർട്ട് ചെയ്തിട്ടില്ലാത്ത ഓരോ എലെമെന്റും ഇതിനകം സോർട്ട് ചെയ്തിരിക്കുന്ന അറേയിൽ ശരിയായ സ്ഥലത്തേക്ക് ചേർക്കുന്നു ഈ ഇൻസെർഷൻ സ്റ്റെപ്പുള്ളതിനാൽ എല്ലാ എലെമെന്റ്കളും അതിന്റെ ശരിയായ സ്ഥലത്തേക്ക് ചേർക്കപ്പെടുന്നു ഇതിനെ ഇൻസെർഷൻ സോർട്ട് എന്ന് വിളിക്കുന്നു ഇത് വളരെ ലളിതമായ ഇറ്ററേറ്റിവ് അൽഗോരിതമാണ് നമുക്ക് ഒരു അറേ A യും 0 മുതൽ n 1 വരെയുള്ള പൊസിഷനുകളും ഉണ്ട് തുടക്കത്തിൽ നമുക്ക് ഒന്നുമില്ലാത്തപ്പോൾ നമ്മൾ ആദ്യത്തെ പൊസിഷൻ മുതൽ ആരംഭിക്കുന്നു തുടർന്ന് നമ്മൾ പിന്നിലേക്ക് നോക്കുന്നു നമ്മൾ നോക്കുന്ന വാല്യൂ അതിന്റെ ഇടതുവശത്തുള്ള വാല്യൂവിനേക്കാൾ ചെറുതാണെങ്കിൽ വീണ്ടും പിന്നിലേക്ക് പോകുന്നു എവിടെയാണോ നമ്മൾ നോക്കുന്ന വാല്യൂവിനേക്കാൾ വലിയ വാല്യൂ കാണുന്നത് അതിന്റെ വലതു വശത്തുള്ള വാല്യൂവും നമ്മുടെ വാല്യൂവും പരസ്പരം സ്വാപ്പ് ചെയ്യുന്നു ഈ സ്വാപ്പ് പ്രവർത്തനം അടിസ്ഥാനപരമായി അറേയിൽ രണ്ട് സ്ഥാനങ്ങൾ എടുക്കുകയും അവ പരസ്പരം കൈമാറുകയും ചെയ്യുന്നു അതായത് nextpos ഉം nextpos 1 ഉം സ്വാപ്പ് ചെയ്യുകയെന്നാൽ nextpos ന്റെ വാല്യൂ എടുക്കുക nextpos 1 ന്റെ വാല്യൂ എടുക്കുക അവ പരസ്പരം കൈമാറുക എന്നാണർത്ഥം വിപുലീകരിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങളാണെന്ന് നമുക്ക് അനുമാനിക്കാം കാരണം ഇത് നമുക്ക് ചെയ്യേണ്ട മൊത്തം പ്രവർത്തനത്തിന്റെ എണ്ണത്തിൽ കോംപ്ലക്സിറ്റി കണക്കാക്കുമ്പോൾ അവഗണിക്കാൻ കഴിയുന്ന ഒരു കോൺസ്റ്റന്റ് ഫാക്ടർ കൂടി ചേർക്കുന്നു എന്നുമാത്രം അതിനാൽ ഓരോ എലെമെന്റും ഇടതുവശത്തുള്ള എലെമെന്റിനേക്കാൾ ചെറുതായിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ഇടത് എലെമെന്റുമായി മാറ്റുന്നു ഇടതുവശത്തെ വാല്യൂ നിലവിലെ വാല്യൂവിനേക്കാൾ ചെറുത് അഥവാ തുല്യമായ ഒരു സ്ഥാനത്ത് വരുമ്പോൾ നമ്മൾ നിർത്തുന്നു അതിനാൽ ഇത് നമ്മൾ ആരംഭിച്ച വാല്യൂവിനെ ശരിയായ സ്ഥാനത്ത് കൊണ്ടുവരുന്നു അതിനാൽ ഇത് എല്ലാ എലെമെന്റുകളിലും ഉപയോഗിക്കേണ്ട ഒരു അടിസ്ഥാന ലൂപ്പാണ് ഓരോ എലെമെന്റിനും അത് ചേർക്കേണ്ടതുണ്ട് അതിനാൽ നമ്മൾ ആദ്യമായി ഇത് ഒരു ചെറിയ വിഭാഗത്തിൽ ഉൾപ്പെടുത്തും മുന്നോട്ട് പോകുന്തോറും അത് ഉൾപ്പെടുത്തേണ്ട സെഗ്മെന്റുകൾ ദൈർഘ്യമേറിയതായിത്തീരുന്നു അതിനാൽ നമുക്ക് നൽകിയ ഒരു അറേയിൽ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ഇപ്പോൾ കാണാൻ കഴിയും ആദ്യം നമ്മൾ ഈ സെഗ്മെന്റ് നോക്കിക്കൊണ്ട് ആരംഭിക്കുന്നു അതിനാൽ ഇത് എന്റെ ആദ്യത്തെ കോൺഫിഗറേഷൻ ആണ് ഇത് സോർട്ട് ചെയ്തതാണ് ഇത് സോർട്ട് ചെയ്തിട്ടില്ല ഇപ്പോൾ 32 74 നേക്കാൾ ചെറുതായതിനാൽ അവ പരസ്പരം മാറ്റുന്നു തുടർന്ന് അത് ആരംഭത്തിൽ എത്തുന്നതിനാൽ നിർത്തുന്നു ലൂപ്പിലെ ഒരു വ്യവസ്ഥ ലൂപ്പിന്റെ ആരംഭത്തിൽ എത്തിയാൽ അതായത് nextpos 0ന് തുല്യമായാൽ അത് നിർത്തണം എന്നാണ് അതായത് ഏറ്റവും ഇടതുവശത്ത് എത്തിയാൽ ലൂപ്പുകൾ അവസാനിക്കും അത് ചെയ്തുകഴിഞ്ഞാൽ എന്റെ പുതിയ കോൺഫിഗറേഷൻ ഇതാണ് ഇനി ഇതിൽ 89 ചേർക്കാൻ ശ്രമിക്കണം 89 ഇതിനകം 74 നെക്കാൾ വലുതാണെന്ന് ഞാൻ കണ്ടെത്തിയതിനാൽ ഒന്നും ചെയ്യാനില്ല അടുത്തതായി ഞാൻ 55 എടുക്കുമ്പോൾ ഞാൻ അതിനെ 89 മായി താരതമ്യം ചെയ്യുന്നു 89 55 നെക്കാൾ വലുതാണെന്ന് കണ്ടെത്തി ഞാൻ അവ കൈമാറും ഇനി ഞാൻ 55 നെ 74 യുമായി താരതമ്യം ചെയ്യും വീണ്ടും അവ ശരിയായ ക്രമത്തിലല്ല അതിനാൽ അവ സ്വാപ്പ് ചെയ്യും ഒടുവിൽ 55 ഇപ്പോൾ 32 നേക്കാൾ വലുതാണെന്ന് കണ്ടെത്തുമ്പോൾ നമ്മൾ നിർത്തും അടുത്ത എലമെന്റ് 21 ആണ് അതിനാൽ ഞാൻ 21 എടുക്കും 21 89 നേക്കാൾ ചെറുതായതിനാൽ അവ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യും അതിനാൽ അത് ഇടത്തേക്ക് കൈമാറപ്പെടും 21 74 ഉമായി താരതമ്യം ചെയ്യുമ്പോൾ 21 ചെറുതായതിനാൽ അവയും എക്സ്ചേഞ്ച് ചെയ്യും അടുത്തതായി 55 ഉം 21 ഉം തമ്മിൽ സ്വാപ്പ് ചെയ്യും അവസാനമായി 21 ഉം 32 ഉം തമ്മിലും സ്വാപ്പ് നടക്കും ഇപ്പോൾ ലൂപ്പ് അവസാനിക്കും കാരണം ഇനി ഇടതുവശത്ത് ഒന്നുമില്ല അവസാന റൌണ്ട് 64 നെയാണ് ഇപ്പോൾ ഈ ഭാഗം എല്ലാം അടുക്കിയിരിക്കുന്നു അതിനാൽ ഞാൻ 64 എടുത്ത് അത് ഇവിടെ ചേർക്കാൻ ശ്രമിക്കും അതിനാൽ അത് 89 കൊണ്ട് സ്വാപ്പ് ചെയ്യും 74 ഉപയോഗിച്ച് സ്വാപ്പ് ചെയ്യും തുടർന്ന് നിർത്തുന്നു ഇൻസെർഷൻ സോർട്ട് ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇത് വളരെ ഇന്റയുറ്റിവ് ആയ തരാം സോർട്ടിങ് ആണ് നിങ്ങൾ ഒരു പായ്ക്ക് കാർഡ് എടുത്ത് സോർട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ സാധാരണയായി ഇങ്ങനെയാണ് ക്രമീകരിക്കുക അതിനാൽ ഈ സോർട്ടിങ് വിശകലനം ചെയ്യൂകയാണെങ്കിൽ നമ്മൾ മുമ്പ് കണ്ടെത്തിയ സെലക്ഷൻ സോർട്ടിങ്ന് സമാനമാണ് ഒരു സെഗ്മെന്റിൽ ഒരു വാല്യൂ ഉൾപ്പെടുത്തുക എന്നതിനർത്ഥം നമ്മൾ ആ സെഗ്മെന്റിന്റെ അവസാനം വരെ നോക്കണം എന്നാണ് ഇപ്പോൾ തീർച്ചയായും ഉൾപ്പെടുത്താനുള്ള സ്ഥാനം കണ്ടെത്താൻ ബൈനറി സെർച്ച് ഉപയോഗിച്ച് സമയം കുറക്കാമെങ്കിലും നമുക്ക് കൂടുതൽ എലെമെന്റുകളെ മാറ്റേണ്ടതുള്ളതുകൊണ്ട് സമയം കാര്യമായി ലാഭിക്കാനാകില്ല അതായത്ന ബൈനറി സെർച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ലോഗരിതമിക് സമയത്തിൽ ഇൻസെർട് ചെയ്യേണ്ട സ്ഥാനം കണ്ടെത്താം പക്ഷെ അതിനു വലതുവശത്തുള്ള എലെമെന്റുകളെയെല്ലാം മാറ്റുവാൻ യഥാർത്ഥത്തിൽ ലീനിയർ സമയം എടുക്കും നമ്മൾ യഥാർത്ഥത്തിൽ ഇതിനുള്ള ഇടം ഉണ്ടാക്കേണ്ടതുണ്ട് വേർസ്റ്റ് കേസിൽ നിങ്ങൾ അത് ഏറ്റവും ഇടതുവശത്ത് സ്ഥാപിക്കേണ്ടതുണ്ട് അതിനാൽ ഇതിനകം ഉള്ള എല്ലാ k എലെമെന്റുകളും ഒരു പൊസിഷൻ വലത്തേക്ക് മാറ്റണം അത് k ഘട്ടങ്ങൾ എടുക്കുന്നു അതിനാൽ ബൈനറി സെർച്ച് സ്ഥാനം വേഗത്തിൽ കണ്ടെത്താൻ നമ്മളെ സഹായിക്കുമെങ്കിലും വേഗത്തിൽ ഇൻസെർഷൻ നടപ്പിലാക്കാൻ സഹായിക്കുന്നില്ല അതിനാൽ ഇൻസെർഷൻ ഒരു സെഗ്മെന്റിന് ലീനിയർ സമയം എടുക്കുന്നു ഈ സെഗ്മെന്റ് വളർന്നു കൊണ്ടിരിക്കുകയാണ് തുടക്കത്തിൽ A1 വലിപ്പം 1 ഉള്ള സെഗ്മെന്റിലേക്ക് തുടർന്ന് A1 വലിപ്പം 2 ഉള്ള സെഗ്മെന്റിലേക്ക് എന്നിങ്ങനെ നമുക്കു ചേർക്കേണ്ടതുണ്ട് അതിനാൽ ഇതിനാവശ്യമായ സ്റ്റെപ്പുകൾ 1 2 3 n 1 ആണ് ഒടുവിൽ An 1 നെ n 1 നീളമുള്ള A0 മുതൽ An 2 വരെയുള്ള സെഗ്മെന്റിൽ ചേർക്കണം അതായത് t 1 2 ഇത് നമ്മൾ മുൻപ് പലതവണ ചർച്ച ചെയ്തിട്ടുള്ള ഒന്നാണ് ഇതിന്റെ മൂല്യം n2 ആണ് അതിനാൽ ഇത് n2 ഓർഡറുള്ള മറ്റൊരു സെർച്ച് ആണ് സെലക്ഷൻ സോർട്ടിനായി നമ്മൾ കണ്ടതുപോലെ ഇൻസെർഷൻ സോർട്ടിനെ ഒരു റെക്കേർസിവ് അൽഗോരിതമായി കരുതുന്നതിനുള്ള സ്വാഭാവിക സാഹചര്യമുണ്ട് നമ്മൾ അറേയുടെ ഒരു ഭാഗം സോർട്ട് ചെയ്യുന്നു എന്നിട്ട് അതിനെ വളർത്താൻ ഒരു എലെമെന്റ് ചേർക്കുന്നു അതിനാൽ ഈ സാഹചര്യത്തിൽ അറേ എലെമെന്റുകളായി ഉള്ളതായി നമ്മൾ കരുതുന്നു അതിനാൽ നമുക്ക് ഒരു സോർട്ട് ചെയ്ത ഭാഗവും സോർട്ട് ചെയ്യാത്ത ഒരു ഭാഗവും ഉണ്ട് അതിനാൽ നമ്മൾ ഇവിടെ ആദ്യത്തെ എലെമെന്റ് എടുത്ത് ഇൻസേർട് ചെയ്യുകയും തുടർന്ന് സോർട്ട് ചെയ്യാത്ത ഭാഗത്ത് അൽഗോരിതം റെക്കേർസിവ് ആയി പ്രയോഗിക്കുകയും ചെയ്യുന്നു അതിനാൽ A0 മുതൽ Ai 1 വരെയാണെങ്കിൽ ഇത് i സ്ഥാനം ആണ് ഇത് i 1 ആണ് അതിനാൽ i 1 അവസാനമായി സോർട്ട് ചെയ്തിരിക്കുന്ന സ്ഥാനമാണ് i ആണ് ആദ്യത്തെ സോർട്ട് ചെയ്യാത്ത സ്ഥാനം എന്നിട്ട് അടുക്കി വച്ചിരിക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ ഒരു i ചേർക്കുന്നു തുടർന്ന് തുടർച്ചയായി Ai1 മുതലുള്ള സ്ഥാനങ്ങൾ സോർട്ട് ചെയ്യുന്നു ഒരിക്കൽ കൂടി n 1 ൽ i യഥാർത്ഥത്തിൽ ഇവിടെയാണെങ്കിൽ പിന്നെ നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല ഇവിടെ നമുക്ക് രണ്ട് ഭാഗങ്ങളായുള്ള റെക്കേർസിവ് ഫോർമുലേഷൻ ആണുള്ളത് ഒന്നാമത്തേതായി നമുക്ക് ഇൻസെർഷൻ സോർട്ട് തന്നെ ഉണ്ട് അത് സോർട്ട് ചെയ്യാത്ത സെഗ്മെന്റ് start മുതൽ n 1 വരെ സോർട്ട് ചെയ്യുക എന്ന് പറയുന്നു start ഇതിനകം n 1 ൽ ആണെങ്കിൽ മടങ്ങുക അല്ലാത്തപക്ഷം start എന്ന പൊസിഷനിലുള്ള വാല്യൂ ബാക്കിയുള്ള A യിലേക്ക് ചേർക്കുക തുടർന്ന് start 1 മുതൽ ബാക്കിയുള്ള അറേ റെക്കേർസിവായി സോർട്ട് ചെയ്യുക ഇൻസെർട് ഫങ്ഷൻ insert എന്താണ് ചെയ്യുന്നത് അത് പൊസിഷൻ സ്റ്റാർട്ട് മുതൽ ആരംഭിക്കുകയും 0 മുതൽ start 1 വരെയുള്ള സെഗ്മെന്റിൽ ചേർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അതിനാൽ ഇറ്ററേറ്റിവ് അൽഗോരിതത്തിന്റെ കാര്യത്തിൽ നമ്മൾ ചെയ്തതുപോലെ ഇത് പിന്നിലേക്ക് പ്രവർത്തിക്കുന്നു ഇടതുവശത്തെ വാല്യൂ നിലവിലുള്ള വാല്യൂവിന്റെയത്രയെങ്കിലും ചെറുതാകുന്ന ആദ്യസ്ഥാനം കണ്ടെത്തി അവിടെ നിർത്തുന്നു അതിനാൽ ഈ ഇൻസെർട് ഫങ്ഷൻ അടിസ്ഥാനപരമായി ഇറ്ററേറ്റ് ലൂപ്പിന്റെ ബോഡിയാണ് അവിടെ ഒരു ബാഹ്യ ലൂപ്പ് ചെയ്യുന്നത് നമ്മൾ റെക്കേർസിവ് ആയി ചെയ്യുന്നു അതിനാൽ ഇതിന് എത്ര സമയമെടുക്കും റെക്കേർസിവ് അൽഗോരിതങ്ങൾ നോക്കുന്നതിലും വിശകലനം ചെയ്യൂന്നതിലും ഇത് നിങ്ങൾക്ക് പരിശീലനം നൽകുന്നു അതിനാൽ നമുക്ക് റെക്കേർസിവ് അൽഗോരിതം ഉള്ളപ്പോഴെല്ലാം നമ്മൾ ഒരു റെക്കരൻസ് എഴുതുന്നു അതായത് t യുടെ ചെറിയ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ t ന്റെ രൂപീകരണത്തെക്കുറിച്ച് എഴുതുന്നു ഈ റെക്കേർസിവ് അൽഗോരിതം വിശകലനം ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം നമ്മൾ അൽഗോരിതം രൂപപ്പെടുത്തിയ രീതിയിൽ നിന്ന് അല്പം വ്യത്യസ്തമായി നോക്കിക്കൊണ്ട് അത് വിശകലനം ചെയ്യും അതിനാൽ നിങ്ങൾക്ക് A0 മുതൽ An 1 വരെ സോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ സെഗ്മെന്റ് റെക്കേർസിവ് ആയി സോർട്ട് ചെയ്യുകയും തുടർന്ന് ഈ വാല്യൂ ചേർക്കുകയും ചെയ്യുന്നു അതിനാൽ മുഴുവൻ കാര്യങ്ങളും സോർട്ട് ചെയ്യാൻ t സമയമെടുക്കും ആദ്യ ഭാഗം n 2 വരെ സോർട്ട് ചെയ്യാൻ t സമയമെടുക്കും തുടർന്ന് വലതുഭാഗത്ത് ഇൻസേർട് ചെയ്യാൻ n 1 സ്റ്റെപ്പുകളും എടുക്കും അതിനാൽ സെലക്ഷൻ സോർട്ടിംഗിനായി നമുക്ക് കിട്ടിയ അതേ റെക്കരൻസ് നമുക്ക് ലഭിക്കുന്നു t എന്നത് t ആണ് ഇത് ഇൻസെർഷൻ സ്റ്റെപ്പാണ് കൂടാതെ t എന്നത് റെക്കേർസിവ് ഘട്ടമാണ് നാം ഇത് മുമ്പത്തെപ്പോലെ തന്നെ വികസിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് തുടങ്ങി താഴേക്ക് n വരെ ലഭിക്കും അത് n2 ആണ് ഇത് ഓർഡർ n2 ആണ് അതിനാൽ വീണ്ടും ഇറ്ററേറ്റിവ് റെക്കേർസിവ് പതിപ്പുകൾ തമ്മിൽ സമയത്തിൽ വ്യത്യാസമില്ല ഇറ്ററേറ്റിവ് കോളുകളേക്കാൾ വിപുലമായതാണ് റെക്കേർസിവ് കോളുകൾ എന്നത് പൊതുവെ ഓർമ്മിക്കേണ്ടതാണ് കുറച്ചുകഴിഞ്ഞ് ഞങ്ങൾ ഈ ഭാഗത്തേക്ക് മടങ്ങിവരും അല്ലാത്തപക്ഷം റെക്കേർസിവ് കോളുകൾ ഒരു ഫങ്ഷനെ വിളിക്കുന്നത് അടിസ്ഥാന പ്രവർത്തനമാണെന്ന് കണക്കാക്കുകയാണെങ്കിൽ ഇറ്ററേറ്റിവ് റെക്കേർസിവ് പതിപ്പുകൾ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല റെക്കേർസിവ് പതിപ്പ് ചിലപ്പോൾ ആശയപരമായി മനസ്സിലാക്കാനും കോഡ് ചെയ്യാനും എളുപ്പമാണ് നമ്മൾ സ്വമേധയാ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ സാധാരണയായി പ്രയോഗിക്കുന്ന രണ്ട് സ്വാഭാവിക അൽഗോരിതങ്ങൾ ആണ് നമ്മൾ കണ്ടത് സെലക്ഷൻ സോർട്ടും ഇൻസേർഷൻ സോർട്ടും രണ്ടും ഓർഡർ n2 ആണ് ഈ കോഴ്സിൽ നമ്മൾ ചർച്ച ചെയ്യാത്ത ബബിൾ സോർട്ട് എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു അൽഗോരിതം ഉണ്ട് അത് ഞങ്ങൾ സ്വാഭാവികമായി ചെയ്യുന്ന ഒന്നല്ല പക്ഷേ ഒരു കമ്പ്യൂട്ടറിൽ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് വിവരിക്കുന്നതിനുള്ള ഒരു പ്രിയപ്പെട്ട മാർഗമാണ് ഇത് ആരോഹണക്രമത്തിലാണോ അവരോഹണ ക്രമത്തിലാണോ എന്നതിനെ ആശ്രയിച്ച് ബബിൾ സോർട്ട് ഏറ്റവും വലിയ അല്ലെങ്കിൽ ചെറിയ വാല്യൂവുമായി ഈ ഇൻസെർഷൻ തരത്തിലുള്ള സ്വാപ്പിംഗ് നടത്തുന്നു ഇവിടെ സെലെക്ഷൻ സോർട്ട് പോലെ ഏറ്റവും വലിയ വാല്യൂ അറേയുടെ ഒരു അറ്റത്തേക്ക് നീക്കുന്നു തുടർന്ന് രണ്ടാമത്തെ ഏറ്റവും വലിയ വാല്യൂവിനെ രണ്ടാമത്തെ വലിയ സ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നു അതിനാൽ ബബിൾ സോർട്ടും n2 ആണ് എന്നാൽ നമ്മൾ കണ്ടതുപോലെ n2 അൽഗോരിതങ്ങൾ n ന്റെ വലിയ വാല്യൂകൾക്ക് ശരിക്കും പ്രായോഗികമല്ല അതിനാൽ നമുക്ക് ഏകദേശം 10000 ന് മുകളിൽ 104 നും 105 നും ഇടയിൽ n ഉണ്ടെങ്കിൽ n2 എക്സിക്യൂട്ട് ചെയ്യുന്നതിന് നൂറുകണക്കിന് സെക്കൻഡുകൾ എടുക്കും അതിനാൽ ഇത് വലിയ അളവിലുള്ള ഡാറ്റയ്ക്ക് ഉപയോഗപ്രദമാകില്ല എന്നാൽ ഈ അൽഗോരിതങ്ങൾ എല്ലാം ഒരുപോലെ മോശമാണെന്ന് പറയാൻ കഴിയില്ല പ്രത്യേകിച്ചും പരീക്ഷണാത്മക തെളിവുകൾ നോക്കുകയാണെങ്കിൽ ഇൻസെർഷൻ സോർട്ട് സെലെക്ഷൻ സോർട്ടിനേക്കാൾ നന്നായി പ്രവർത്തിക്കുന്നു കൂടാതെ രണ്ടും ബബിൾ സോർട്ടിനേക്കാൾ മികച്ചതാണ് ഇൻസെർഷൻ സോർട്ട് നന്നായി പെരുമാറുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ ഇതിനകം സോർട്ട് ചെയ്തിരിക്കുന്ന അറേയിലേക്ക് ഇൻസെർഷൻ സോർട്ട് പ്രയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് സങ്കൽപ്പിക്കുക സോർട്ട് ചെയ്തിരിക്കുന്ന അറേയിലേക്ക് എന്തെങ്കിലും ഇൻസേർട് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം അത് ഇതിനകം തന്നെ ശരിയായ സ്ഥാനത്താണെന്ന് നമുക്ക് കാണാം ഈ അൽഗോരിതത്തിന്റെ ബുദ്ധിമുട്ടുള്ള ഭാഗമായ ഇൻസെർട് ഫേസ് ഒരു താരതമ്യത്തിന് ശേഷം അവസാനിക്കും അതിനാൽ നിങ്ങൾ ഇതിനകം സോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസെർഷൻ സോർട്ട് അടിസ്ഥാനപരമായി ലീനിയർ സമയമായി മാറും പല സാഹചര്യങ്ങളിലും ഇൻസെർഷൻ സോർട്ട് യഥാർത്ഥത്തിൽ മറ്റുള്ള n2 ഓർഡർ സോർട്ടുകളെ അപേക്ഷിച്ച് അൽപ്പം മെച്ചമായി പെരുമാറുന്നത് ഇതുകൊണ്ടാണ് എന്നാൽ പൊതുവായി n2 ഓർഡർ സോർട്ടിംഗ് അൽഗോരിതങ്ങൾ സ്വീകാര്യമല്ല ഡാറ്റ സോർട്ട് ചെയ്യുന്നതിനുള്ള ബുദ്ധിപരമായ വഴികൾ കണ്ടെത്തേണ്ടതുണ്ട് കാരണം വലിയ അളവിലുള്ള ഡാറ്റ സോർട്ട് ചെയ്യാൻ ഇത് അപ്രായോഗികമാണ്